ആശംസകളും മൊഡ്യൂൾ 1 ഭാഗം 8 ലേക്ക് സ്വാഗതവും മുമ്പത്തെ യൂണിറ്റ് പോലെ ഈ യൂണിറ്റ് വീണ്ടും പ്രോഗ്രാം ഫലങ്ങളുമായി ബന്ധപ്പെട്ടതാണ് എന്നാൽ മുമ്പത്തെ യൂണിറ്റിൽ നമ്മൾ സങ്കീർണ്ണമായ എഞ്ചിനീയറിംഗ് പ്രശ്നങ്ങളുടെ സ്വഭാവം എന്താണെന്ന് നോക്കി അവ ഒരു അധ്യായാവസാന പ്രശ്നങ്ങളിൽ നിന്ന് വളരെ വ്യത്യസ്തമാണ് കാരണം പ്രശ്നങ്ങൾ ലളിതവും ബുദ്ധിമുട്ടായിരിക്കും പക്ഷേ പ്രയാസകരമായ പ്രശ്നം സങ്കീർണ്ണമായ എഞ്ചിനീയറിംഗ് പ്രശ്നമായി മാറുന്നില്ല ഒരു ഇൻസ്ട്രക്ടർ എന്ന നിലയിൽ അത് ഓർക്കേണ്ട ഒരു കാര്യമാണ് എൻബിഎ തിരിച്ചറിഞ്ഞ 12 പ്രോഗ്രാം ഫലങ്ങളിൽ ആദ്യത്തെ 5 സാങ്കേതിക സ്വഭാവമുള്ളവയാണ് അതുകൊണ്ടാണ് സാങ്കേതിക സ്വഭാവമുള്ള ആദ്യത്തെ 5 എണ്ണത്തെ ഒരു വിഭാഗമായി ഞങ്ങൾ വർഗ്ഗീകരിച്ചത് ഈ സാങ്കേതിക ഫലങ്ങളിൽ പോലും ഈ പിഒകളുടെ ചില ഘടകങ്ങൾ മാത്രമേ ഇന്നത്തെ എഞ്ചിനീയറിംഗ് പ്രോഗ്രാമുകൾ അഭിസംബോധന ചെയ്യുന്നുള്ളൂ എന്ന് ഞങ്ങൾ ശ്രദ്ധിച്ചു ഇത് മനഃപൂർവ്വം ആയിരിക്കില്ല പക്ഷേ എങ്ങനെയെങ്കിലും ഈ 5 പിഒകളുടെ പ്രബലമായ ഘടകങ്ങളെ പോലും അവഗണിക്കുന്നതിനായി മുഴുവൻ സിസ്റ്റവും സ്വയം ക്രമീകരിച്ചു അതിനാൽ അതാണ് മുമ്പത്തെ മൊഡ്യൂളിൽ വാസ്തവത്തിൽ മുമ്പത്തെ യൂണിറ്റിൽ ഞങ്ങൾ കുറിച്ചത് ഇപ്പോൾ നിലവിലുള്ള യൂണിറ്റിന്റെ ഫലം പിഒ6 മുതൽ പിഒ12 വരെയുള്ള പ്രോഗ്രാം ഫലങ്ങളുടെ സ്വഭാവവും പ്രാധാന്യവും ഒരു ബിരുദ എഞ്ചിനീയർക്ക് ഏത് വിധത്തിൽ പ്രസക്തമാണെന്ന് മനസിലാക്കുക എന്നതാണ് അതാണ് ഈ പ്രത്യേക യൂണിറ്റിന്റെ ലക്ഷ്യം ഇപ്പോൾ പിഒ6 നെ എഞ്ചിനീയറും സൊസൈറ്റിയും എന്ന് അടയാളപ്പെടുത്തിയിരിക്കുന്നു പ്രസ്താവന പറയുന്നത് പ്രൊഫഷണൽ എഞ്ചിനീയറിംഗ് പരിശീലനത്തിന് പ്രസക്തമായ സാമൂഹിക ആരോഗ്യം സുരക്ഷ നിയമ സാംസ്കാരിക പ്രശ്നങ്ങൾ അതിന്റെ അനന്തരഫലങ്ങൾ എന്നിവ വിലയിരുത്തുന്നതിന് സന്ദർഭോചിതമായ അറിവ് വഴി യുക്തിസഹമായി പ്രയോഗിക്കുക എന്നാണ് ഇതിലേക്ക് നിരവധി ഘടകങ്ങളുണ്ട് നിങ്ങൾ സന്ദർഭോചിതമായ അറിവ് നോക്കുകയാണെങ്കിൽ എന്താണ് ഞങ്ങൾ മനസ്സിലാക്കേണ്ടതുണ്ട് എന്നതിനർത്ഥം സാമൂഹിക ആരോഗ്യം സുരക്ഷ നിയമ സാംസ്കാരിക പ്രശ്നങ്ങൾ തുടങ്ങിയ മറ്റ് ഘടകങ്ങളും ഞങ്ങൾക്ക് ഉണ്ട് ഉത്തരവാദിത്വങ്ങൾ പ്രൊഫഷണൽ എഞ്ചിനീയറിംഗ് പരിശീലനത്തിലാണ് അതിനാൽ ഇതിൽ നിരവധി കീവേഡുകൾ ഉണ്ട് എഞ്ചിനീയറിംഗ് വിദ്യാർത്ഥിക്ക് ഇത് പ്രസക്തമായിരിക്കുന്നത് എന്തുകൊണ്ട് നിങ്ങൾ ശ്രദ്ധിക്കുകയാണെങ്കിൽ സാങ്കേതികമായത് സാമൂഹിക മാറ്റങ്ങളുടെ കാരണവും ഫലവുമാണ് അതിനർത്ഥം ഒരു സാങ്കേതികവിദ്യ ഒരു സാമൂഹിക മാറ്റത്തിന് കാരണമാകുമെന്നും ഒരു സാമൂഹിക മാറ്റത്തിന് പുതിയ സാങ്കേതികവിദ്യയെ പ്രോത്സാഹിപ്പിക്കാനോ നിലവിലുണ്ടാക്കാനോ കഴിയും സാങ്കേതികവിദ്യയെ സാമൂഹിക ഉപയോഗത്തിലേക്ക് കൊണ്ടുവരുന്ന വ്യക്തികൾ എഞ്ചിനീയർമാരാണ് എഞ്ചിനീയർമാർ ഉൽപ്പന്നങ്ങളും സേവനങ്ങളും ഉൽപാദിപ്പിക്കുന്നത് സമൂഹത്തിന്റെ പ്രയോജനത്തിനായിട്ടാണ് ഓരോ ഉൽപ്പന്നത്തിലും നിങ്ങൾക്ക് സാമൂഹിക ആരോഗ്യം സുരക്ഷ നിയമ സാംസ്കാരിക പ്രശ്നങ്ങൾ എന്നിങ്ങനെയുള്ള എല്ലാ പ്രശ്നങ്ങളും ഉണ്ട് എല്ലാ ഉൽപ്പന്നങ്ങൾക്കും സേവനങ്ങൾക്കും മുകളിൽ അവ സന്ദർഭത്തെ ആശ്രയിച്ചിരിക്കുന്നു അവ സാർവത്രികമല്ല എപ്പോൾ പ്രയോഗിക്കണം അവ എപ്പോൾ പ്രധാനമാകുമെന്ന് ഒരു എഞ്ചിനീയർ മനസിലാക്കേണ്ടതുണ്ട് കാരണം അവ സന്ദർഭത്തെ ആശ്രയിച്ചിരിക്കുന്നു അതിനാൽ വിവിധ സന്ദർഭങ്ങളിൽ ആളുകൾ സമൂഹം എന്നിവരുമായുള്ള ഉൽപ്പന്നങ്ങളുടെയും സേവനങ്ങളുടെയും ബന്ധം വിദ്യാർത്ഥികൾ അനുഭവിക്കുകയോ മനസ്സിലാക്കുകയോ ചെയ്യേണ്ടതുണ്ട് ഇലക്ട്രോണിക്സിന്റെ കാര്യത്തിൽ മുമ്പ് റേഡിയോ ഒരു പ്രധാന കാര്യമായിരുന്നു തുടർന്ന് ടിവി ഒരു പ്രധാന കാര്യമായിരുന്നു ഇപ്പോൾ സെൽഫോൺ ഒരു പ്രധാന കാര്യമാണ് നിങ്ങൾ ഒന്ന് നോക്കിയാൽ നിങ്ങൾക്ക് കാരണവും പ്രഭാവവും എന്ന് വിളിക്കാൻ കഴിയുന്ന ഒന്ന് പിൻതുടരുകയാണെങ്കിൽ സെൽഫോണും സമൂഹവും എന്നിവ തമ്മിൽ പരസ്പരം മാറ്റാവുന്ന ബന്ധം എന്ന് പറയട്ടെ കുറഞ്ഞത് അതിലാണ് ഒരു എഞ്ചിനീയർക്ക് സംവേദനക്ഷമത തോന്നേണ്ടത് കൂടാതെ നമുക്ക് ഇത് എങ്ങനെ പരിഹരിക്കാനാകും ചില കോഴ്സുകളിൽ കേസ് സ്റ്റഡീസ് ഉൾപ്പെടുത്താമെന്നതാണ് ഒരു മാർഗ്ഗം അത് നിരവധി സന്ദർഭങ്ങളിൽ ഉൽപ്പന്നങ്ങൾ സേവനം ആളുകൾ ഇവയുടെ ബന്ധത്തിലേക്ക് വിദ്യാർത്ഥികളുടെ ശ്രദ്ധ ആകർഷിക്കും വിലയിരുത്തൽ വിദ്യാർത്ഥിയുടെ ഉത്തരവാദിത്വങ്ങളെക്കുറിച്ചുള്ള ധാരണയുടെ അടിസ്ഥാനത്തിലായിരിക്കാം കാരണം കേസ് പഠനം അവതരിപ്പിക്കുന്നത് വളരെ എളുപ്പമാണ് പക്ഷേ അയാൾക്ക് സംവേദനക്ഷമതയുണ്ടെന്ന് നിങ്ങൾക്ക് എങ്ങനെ അറിയാം അതിനാൽ വിദ്യാർത്ഥിയുടെ ഉത്തരവാദിത്വത്തെക്കുറിച്ചുള്ള ധാരണയുടെ അടിസ്ഥാനത്തിൽ നിങ്ങൾ വിലയിരുത്തൽ രൂപകൽപ്പന ചെയ്യണം പ്രോജക്റ്റുകൾക്കായുള്ള മൂല്യനിർണ്ണയ റൂബ്രിക്സിന് എഞ്ചിനീയർ സൊസൈറ്റി ഇടപെടലിന്റെ ഘടകങ്ങൾ ഉൾപ്പെടുത്താൻ കഴിയും നിങ്ങൾ മൂല്യനിർണ്ണയ റൂബ്രിക്സ് ഉൾപ്പെടുത്തിയിട്ടില്ലെങ്കിൽ ഈ എഞ്ചിനീയർ സൊസൈറ്റി ഇടപെടൽ പ്രോജക്ട് അഭിസംബോധന ചെയ്യില്ലെന്നും ടെക്നോളജി സൊസൈറ്റി ഇടപെടലിനെക്കുറിച്ചുള്ള വേറെ കോഴ്സുകൾ ഉണ്ടാകാമെന്നും നിങ്ങൾക്ക് ഉറപ്പിക്കാം ഇത് വീണ്ടും പാഠ്യപദ്ധതി രൂപകൽപ്പനയിലേക്ക് വരുന്നു ആരാണ് ഈ കോഴ്സുകൾ രൂപകൽപ്പന ചെയ്യുന്നത് ആരാണ് ഈ കോഴ്സുകൾ വാഗ്ദാനം ചെയ്യുന്നത് എന്നത് വളരെ ബുദ്ധിമുട്ടുള്ള പ്രശ്നമാണ് ഊർജ്ജവും സമൂഹവും ജലവും സമൂഹവും അല്ലെങ്കിൽ കേവലം സങ്കീർണ്ണത പാർപ്പിടം സുസ്ഥിരത എന്നിവ ഈ പ്രത്യേക പിഒയെ അഭിസംബോധന ചെയ്യാൻ കഴിയുന്ന ചില കോഴ്സുകൾക്ക് ചില ഉദാഹരണങ്ങളാണ് കൂടാതെ പിഒ6 നെ അഭിസംബോധന ചെയ്യാൻ കഴിയുന്ന നിർദ്ദിഷ്ട പ്രവർത്തനങ്ങൾ പ്രസക്തമായ പ്രൊഫഷണൽ സമൂഹത്തിന്റെ ലക്ഷ്യങ്ങളും പ്രവർത്തനങ്ങളും മനസിലാക്കുക കാരണം പ്രൊഫഷണൽ സമൂഹത്തിന് സാധാരണയായി അവരുടെ പരിശീലകൻ പരിശീലിക്കേണ്ട പ്രൊഫഷണൽ ധാർമ്മിക രീതിയെക്കുറിച്ച് സംസാരിക്കാൻ കഴിയും കുറഞ്ഞത് നിങ്ങൾക്ക് പ്രസക്തമായ പ്രൊഫഷണൽ സൊസൈറ്റിയുടെ ലക്ഷ്യങ്ങളും പ്രവർത്തനങ്ങളും പരിചയമുണ്ടെങ്കിൽ ഒരാൾക്ക് ഈ പിഒയുടെ ചില മാനങ്ങൾ മനസ്സിലാക്കാൻ കഴിയും എഞ്ചിനീയർമാർ അവരുടെ പ്രൊഫഷണൽ പ്രവർത്തനങ്ങളിലൂടെ സമൂഹവുമായി എപ്പോൾ എവിടെയാണ് ഇടപെടുന്നതെന്ന് തിരിച്ചറിയുക നിങ്ങൾക്ക് ഒരു പ്രത്യേക ഉദാഹരണം നൽകാനും അവരോട് ചോദിക്കാനും കഴിയും ഈ രീതിയിലുള്ള ഒരു അഭ്യാസം ചെയ്യാൻ വിദ്യാർത്ഥികളോട് ആവശ്യപ്പെടുക ഒരാളുടെ പ്രൊഫഷണൽ പരിശീലനം സൂചിപ്പിക്കുന്ന ഉത്തരവാദിത്വങ്ങൾ മനസിലാക്കുക ഇവ ചില പ്രവർത്തനങ്ങളാണ് ഈ പിഒ6 ന്റെ ചില ഘടകങ്ങളെ അഭിസംബോധന ചെയ്യുന്ന നിരവധി പ്രവർത്തനങ്ങളുമായി ഒരാൾക്ക് വരാൻ കഴിയും ഇപ്പോൾ പിഒ7 ലേക്ക് വരുന്നു ഇത് കുറച്ചുകൂടി എളുപ്പത്തിൽ മനസ്സിലാക്കാവുന്നതേയുള്ളൂ പ്രത്യേകിച്ച് നിലവിൽ പരിസ്ഥിതിയും സുസ്ഥിരതയും സാമൂഹികവും പാരിസ്ഥിതികവുമായ സന്ദർഭങ്ങളിൽ പ്രൊഫഷണൽ എഞ്ചിനീയറിംഗ് പരിഹാരങ്ങളുടെ സ്വാധീനം മനസിലാക്കുകയും സുസ്ഥിര വികസനത്തിന്റെ ആവശ്യകതയും അറിവും പ്രകടിപ്പിക്കുകയും ചെയ്യുക അതിനാൽ കീവേഡുകൾ പരിസ്ഥിതിയും സുസ്ഥിരതയുമാണ് ചില അർത്ഥത്തിൽ രണ്ടും പരസ്പരം ബന്ധപ്പെട്ടിരിക്കുന്നു എന്നിരിക്കിലും സുസ്ഥിര വികസനത്തിന്റെ ആവശ്യകത വിദ്യാർത്ഥി ആദ്യം മനസ്സിലാക്കണം വിഭവങ്ങൾ പരിമിതപ്പെടുത്തിക്കൊണ്ട് അതിവേഗം വളരുന്ന ഒരു ജനസംഖ്യയുള്ള ഒരു ലോകത്ത് അതിനാൽ നിലവിലെ ജീവിത രീതിയും നിലവിലെ ബിസിനസ്സ് രീതിയും സുസ്ഥിരമല്ല കാരണം ഇത് നിരവധി ആളുകൾ ആവർത്തിച്ച് പ്രസ്താവിക്കുന്നു എന്നാൽ നാം അതിനോട് സംവേദനക്ഷമരാണോ ഇത് ഞങ്ങളുടെ തൊഴിലിലും ജീവിതത്തിലും ഞങ്ങൾ ചെയ്യുന്ന കാര്യങ്ങളിൽ ചില സ്വാധീനം ചെലുത്തും ആളുകളിലും പരിസ്ഥിതിയിലും എഞ്ചിനീയറിംഗ് പരിഹാരങ്ങളുടെ സ്വാധീനം വിദ്യാർത്ഥി മനസ്സിലാക്കണം രണ്ടും ആവശ്യമാണ് സുസ്ഥിര വികസനത്തിലേക്ക് നയിക്കുന്ന കാര്യങ്ങളെക്കുറിച്ചുള്ള അറിവ് വിദ്യാർത്ഥി പ്രകടിപ്പിക്കണം ഇവ ഘടകങ്ങളാണ് ഉദാഹരണത്തിന് ഈ മൂന്ന് ആവശ്യകതകളെ ചുറ്റിപറ്റി ഒരാൾക്ക് ചില പ്രവർത്തനങ്ങൾ നിർമ്മിക്കാൻ കഴിയും സ്ലൈഡ് സമയം 09 19 കാണുക അതിനാൽ ഈ പിഒയെ വീണ്ടും കേസ് പഠനങ്ങളിലൂടെ പരിഹരിക്കാൻ കഴിയും സാങ്കേതികവിദ്യയെയും സമൂഹത്തെയും കുറിച്ചുള്ള കോഴ്സുകളും സുസ്ഥിരതയെക്കുറിച്ചുള്ള കോഴ്സും ഉണ്ടാകാം സുസ്ഥിരതാ പ്രശ്നങ്ങളിലേക്ക് വിദ്യാർത്ഥികളുടെ ശ്രദ്ധ ആകർഷിക്കുന്ന ചില കോഴ്സുകളിൽ കേസ് പഠനങ്ങൾ ഉൾപ്പെടുത്താം എഞ്ചിനീയറിംഗ് പരിഹാരങ്ങൾ സുസ്ഥിരതയെ എങ്ങനെ ബാധിക്കുമെന്നതിനെക്കുറിച്ചുള്ള വിദ്യാർത്ഥിയുടെ ധാരണയുടെ രൂപത്തിലായിരിക്കും വിലയിരുത്തൽ മുമ്പത്തെ പിഒയെപ്പോലെ ഇവിടെയും കേസ് സ്റ്റഡീസ് വഴി നിങ്ങൾക്ക് കേസ് സ്റ്റഡി അവതരിപ്പിക്കാനും നിങ്ങൾക്ക് വിദ്യാർത്ഥിയോട് സുസ്ഥിരതയിൽ എഞ്ചിനീയറിംഗ് പരിഹാരങ്ങളുടെ സ്വാധീനത്തെക്കുറിച്ച് അവനുള്ള ധാരണയെക്കുറിച്ച് ചോദിക്കാനും കഴിയും ഇപ്പോൾ നിങ്ങൾക്ക് എന്തുതരം പ്രവർത്തനങ്ങൾ ചെയ്യാനാകും സുസ്ഥിരവളർച്ച എന്താണെന്ന് മനസ്സിലാക്കുക തന്നിരിക്കുന്ന സാങ്കേതികവിദ്യയുടെ പരിസ്ഥിതിയിലും സ്ഥിരതയിലും ഉള്ള സ്വാധീനം മനസ്സിലാക്കുക തന്നിരിക്കുന്ന എഞ്ചിനീയറിംഗ് പരിഹാരത്തിന്റെ പരിസ്ഥിതിയെക്കുറിച്ചും സുസ്ഥിരതയെക്കുറിച്ചും വിശകലനം ചെയ്യുക ഒരാൾക്ക് വലുതോ ചെറുതോ ആയ എഞ്ചിനീയറിംഗ് പരിഹാരങ്ങളെക്കുറിച്ച് സംസാരിക്കാൻ കഴിയും തുടർന്ന് നമുക്ക് പരിസ്ഥിതിയിലും സുസ്ഥിരതയിലും അവ ചെലുത്തുന്ന സ്വാധീനത്തെക്കുറിച്ച് സംസാരിക്കാം പരിസ്ഥിതിയുടേയും സുസ്ഥിരതയുടേയും പ്രഭാവത്തെക്കുറിച്ച് സംസാരിക്കുമ്പോൾ അത്തരം അഭ്യാസങ്ങൾ ഒരു യുവ വിദ്യാർത്ഥിയെ പ്രകോപിപ്പിക്കും എന്നാൽ ഒരാൾക്ക് സംവേദനക്ഷമത നേടാനുള്ള മാർഗമാണിത് ഇപ്പോൾ പിഒ8 എത്തിക്സുമായി ബന്ധപ്പെട്ടിരിക്കുന്നു നിങ്ങൾ കാണുന്നതുപോലെ പിഒ6 ഉം എത്തിക്സിനെക്കുറിച്ചും PO8 നൈതികതയെക്കുറിച്ചും സംസാരിക്കുന്നു പിഒ പ്രസ്താവന എന്താണ് നൈതികതത്ത്വങ്ങൾ പ്രയോഗിക്കുകയും പ്രൊഫഷണൽ നൈതികതകളും എഞ്ചിനീയറിംഗ് പരിശീലനത്തിന്റെ ഉത്തരവാദിത്വങ്ങളും മാനദണ്ഡങ്ങളും പാലിക്കുകയും ചെയ്യുക ശരി അത് ധാർമ്മികതയിലേക്ക് വരുന്നു അത് എല്ലായ്പ്പോഴും പ്രബോധനം പോലെ കാണപ്പെടും എന്നാൽ യഥാർത്ഥ ലോകത്ത് നിങ്ങൾക്ക് ധാർമ്മിക തത്ത്വങ്ങൾ പ്രയോഗിക്കണമെങ്കിൽ ഒരാൾക്ക് ധാർമ്മിക തത്ത്വങ്ങൾ പ്രയോഗിക്കാൻ കഴിയണമെങ്കിൽ അതിന് ഞങ്ങൾ ധാർമ്മിക സ്വയംഭരണം എന്ന് വിളിക്കുന്നു എന്താണ് ധാർമ്മിക സ്വയംഭരണം പ്രവർത്തനത്തിന്റെ പെരുമാറ്റവും തത്ത്വങ്ങളും വ്യക്തിയുടെതാണെന്നാണ് ഇതിനർത്ഥം അത് മറ്റൊരാളുടെ ഉത്തരവാദിത്വമല്ലെന്ന് ഞങ്ങൾക്ക് കൈമലർത്തി അത് ഒരു സംവിധാനമാണെന്ന് ഞാൻ ജോലി ചെയ്യുന്ന കമ്പനി തുടങ്ങിയവ പറയാൻ കഴിയില്ല എന്നാൽ നിങ്ങൾ ഒരു പ്രത്യേക സ്ഥലത്ത് ജോലിചെയ്യുന്നുവെന്നും നിങ്ങൾ ചില നടപടികൾ കൈക്കൊള്ളുന്നുണ്ടെന്നും ഉള്ളത് നിങ്ങൾ സ്വന്തമാക്കണം അതിനെയാണ് ഞങ്ങൾ ധാർമ്മിക സ്വയംഭരണം എന്ന് വിളിക്കുന്നത് അതിനർത്ഥം തീരുമാനങ്ങളും പ്രവർത്തനവും നിർണായക പ്രതിഫലനത്തെ അടിസ്ഥാനമാക്കിയുള്ളതാണ് ചില നിയമാവലി നിഷ്ക്രിയമായി സ്വീകരിക്കുന്നതല്ല ധാർമ്മിക വിശ്വാസങ്ങളും മനോഭാവങ്ങളും ഒരാളുടെ വ്യക്തിത്വത്തിന്റെ കാതലിലേക്ക് സംയോജിപ്പിച്ച് പ്രതിബദ്ധതയുള്ള പ്രവർത്തനത്തിലേക്ക് നയിക്കുന്നു ഇത് ഞങ്ങൾ അംഗീകരിക്കുന്ന ചെയ്യാൻ പ്രയാസമുള്ള ഒരു കാര്യമാണ് അതും ഇന്നത്തെ സങ്കീർണ്ണമായ ഒരു സമൂഹത്തിൽ പക്ഷേ കുറഞ്ഞത് പരിശോധിക്കാനും സ്വന്തം വിശ്വാസങ്ങളെയും മനോഭാവങ്ങളെയും കുറിച്ച് ആത്മപരിശോധന നടത്താനും അത് സ്വന്തം വ്യക്തിത്വത്തിൽ ഉൾപ്പെടുത്താൻ കഴിയുമോ എന്ന് കാണാനും ശ്രമിക്കണം അതായത് ഞാൻ പെരുമാറാൻ ആഗ്രഹിക്കുന്ന രീതി ഇതാണ് ഇത്തരത്തിലുള്ള ജോലികളാണ് ഞാൻ ആഗ്രഹിക്കുന്നത് ഞാൻ പ്രവർത്തിക്കാൻ ആഗ്രഹിക്കുന്നു നിങ്ങൾക്ക് സമൂഹത്തിൽ ധാരാളം ഉദാഹരണങ്ങൾ ഉണ്ടായിരിക്കുമെന്ന് എനിക്ക് ഉറപ്പുണ്ട് കൂടാതെ ആളുകൾ അത്തരം പരിഗണനയുള്ള നിലപാട് സ്വീകരിക്കുകയും അവർ അവരുടെ കരിയർ മാറ്റുകയും നിരവധി തവണ ഇത്തരം രസകരമായ റിപ്പോർട്ടുകൾ പത്രങ്ങളിൽ പ്രസിദ്ധീകരിക്കുകയും ചെയ്തിട്ടുണ്ട് ഇപ്പോൾ പ്രൊഫഷണൽ എഞ്ചിനീയറിംഗ് എത്തിക്സ് എന്താണ് പ്രൊഫഷണലുകളെന്ന നിലയിൽ എഞ്ചിനീയർമാരുടെ പെരുമാറ്റത്തെ നിയന്ത്രിക്കുന്ന നിയമങ്ങളും മാനദണ്ഡങ്ങളുമാണ് അവ ഓരോ പ്രൊഫഷണൽ എഞ്ചിനീയറിംഗ് സൊസൈറ്റിയും അതിന്റെ പരിശീലകർക്ക് ഒരു ധാർമ്മിക നിയമാവലി നിർവചിക്കും എഞ്ചിനീയറിംഗ് പരിശീലനങ്ങളിൽ വിദ്യാർത്ഥികൾ അഭിമുഖീകരിക്കുന്ന നൈതിക പ്രശ്നങ്ങളുടെ സ്വഭാവം മനസ്സിലാക്കണം ഇത് ഒരുതരം കേസ് പഠനമായി നൽകാം എഞ്ചിനീയറിംഗ് പരിശീലനത്തിന്റെ നൈതിക മാനദണ്ഡങ്ങളും അവയുടെ അർത്ഥവും പ്രൊഫഷണൽ തീരുമാനമെടുക്കലും വിദ്യാർത്ഥികൾ മനസ്സിലാക്കണം ഏത് സാഹചര്യത്തിലാണ് ഉപഭോക്താവിന്റെ ആവശ്യങ്ങൾക്കനുസരിച്ച് പ്രവർത്തിക്കാൻ നിങ്ങൾ സമ്മതിക്കുന്നത് പിഒ8 പ്രൊഫഷണൽ നൈതികതയെക്കുറിച്ചുള്ള ഒരു പ്രത്യേക കോഴ്സിലൂടെ ഈ പ്രത്യേക പിഒ അഭിസംബോധന ചെയ്യാൻ കഴിയും ചില കോളേജുകൾ ഇതിനകം തന്നെ അത്തരം ഒരു കോഴ്സ് പ്രൊഫഷണൽ എത്തിക്സ് അല്ലെങ്കിൽ കേസ് സ്റ്റഡീസ് എന്നിവ നൈതിക പ്രശ്നങ്ങളിൽ കേന്ദ്രീകരിച്ച് ചില കോഴ്സുകളിലേക്കും പ്രസക്തമായ കോഴ്സുകളിലേക്കും അവയുടെ തീരുമാനങ്ങൾ വാഗ്ദാനം ചെയ്യുന്നു ഇപ്പോൾ നിങ്ങൾക്ക് ആസൂത്രണം ചെയ്യാൻ കഴിയുന്ന തരത്തിലുള്ള പ്രവർത്തനങ്ങൾ ഏതാണ് സ്വീകാര്യമായ തൊഴിൽപരമായ പ്രവൃത്തി നിന്ന് എഞ്ചിനീയറിംഗ് പരിഹാരത്തിന്റെ വ്യതിയാനങ്ങൾ തിരിച്ചറിയുക ഉദാഹരണത്തിന് നിങ്ങൾക്ക് സമീപകാലത്തെ കേരളത്തിലെ വെള്ളപ്പൊക്കം പരിശോധിക്കാം ഹാജരാക്കിയ അന്തിമ എഞ്ചിനീയറിംഗ് പരിഹാരം ബന്ധപ്പെട്ട കമ്മിറ്റികളുടെ റിപ്പോർട്ടിന് എതിരായിരുന്നു കൂടാതെ ഒരാൾക്ക് എത്രത്തോളം നടപ്പാക്കിയ പരിഹാരത്തിൽ നിന്ന് നിർദ്ദേശിച്ച പരിഹാരത്തിനുള്ള വ്യതിയാനങ്ങളുടെ സ്വാധീനം ഉദാഹരണമായി കാണാൻ കഴിയും ഒരാൾക്ക് അത് നോക്കാം എഞ്ചിനീയറിംഗ് പരിഹാരത്തിന്റെ വിവിധ ഗ്രൂപ്പുകളിൽ വ്യക്തികളുടെ സ്വാധീനം തിരിച്ചറിയുക ഒരിക്കൽ കൂടി കേരളത്തിലെ വെള്ളപ്പൊക്കം അല്ലെങ്കിൽ കർണാടകയിലെ വെള്ളപ്പൊക്കം സാമ്പത്തിക സാഹചര്യങ്ങളോ പ്രത്യേക സമൂഹങ്ങളോ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നതിനാൽ ഒരു പ്രത്യേക എഞ്ചിനീയറിംഗ് പരിഹാരത്തിന്റെ സ്വാധീനം വിവിധ ഗ്രൂപ്പുകളിൽ വ്യത്യസ്തമാകുന്ന മികച്ച ഉദാഹരണങ്ങൾ നൽകുന്നു അവതരിപ്പിച്ച ഒരു കേസ് പഠനത്തിലെ നൈതിക ധർമ്മസങ്കടം തിരിച്ചറിയുക അതിനാൽ എല്ലായ്പ്പോഴും നൈതിക ധർമ്മസങ്കടം വികസനം സുസ്ഥിരത എന്നിവയിലാണ് എല്ലായ്പ്പോഴും ധർമ്മസങ്കടം ഉണ്ടാകും വ്യക്തമായ ഉത്തരങ്ങൾ ഉണ്ടാകണമെന്നില്ല കേസ് പഠനങ്ങളും ചർച്ചകളും മികച്ച ഉദാഹരണങ്ങളാണ് കേസ് പഠനങ്ങളായി അവതരിപ്പിക്കുന്ന ധാർമ്മികമായി സങ്കീർണ്ണമായ സാഹചര്യങ്ങളിൽ പ്രധാനികളെ തീർപ്പുകൽപിക്കുന്നതിനുപകരം നാശനഷ്ടങ്ങൾ കുറയ്ക്കുന്നതിനും പരിഹാരങ്ങൾ സമന്വയിപ്പിക്കുന്നതിനുമുള്ള പ്രവർത്തനങ്ങൾ നിർദ്ദേശിക്കുക അതിനാൽ ഒരു പ്രത്യേകതയാണെങ്കിൽ വികസനത്തിനും സുസ്ഥിരതയ്ക്കും ഇടയിൽ നിലനിൽക്കുന്ന ഈ ധർമ്മസങ്കടം വിദ്യാർത്ഥികൾക്ക് ഒരു സംവാദത്തിൽ പങ്കെടുക്കാനും അതിന് രണ്ട് ആവശ്യകതകൾക്കിടയിൽ ഒത്തുതീർപ്പ് ഉണ്ടാക്കുന്ന ഒരു മികച്ച പരിഹാരവുമായി അവർക്ക് വരാൻ കഴിയുമോ എന്ന് നോക്കാനും കഴിയും ഇവ സാധ്യതകളാണ് പ്രോഗ്രാമിലേക്ക് നിർമ്മിക്കാൻ കഴിയുന്ന പ്രവർത്തനങ്ങളാണിവ എന്നാൽ തീർച്ചയായും അതിന് പാഠ്യപദ്ധതി പുനർരൂപകൽപ്പന ചെയ്യേണ്ടതുണ്ട് ഇപ്പോൾ PO9 വരുന്നു ഈ ദിവസങ്ങളിൽ വ്യക്തിഗതജോലിയും ടീംജോലിയും മനസിലാക്കാൻ വളരെ എളുപ്പമാണ് എന്താണ് പ്രസ്താവന ഒരു വ്യക്തിയെന്ന നിലയിലും വ്യത്യസ്ത ടീമുകളിലും മൾട്ടി ഡിസിപ്ലിനറി ക്രമീകരണങ്ങളിലും അംഗം അല്ലെങ്കിൽ നേതാവ് എന്ന നിലയിലും ഫലപ്രദമായി പ്രവർത്തിക്കുക ഞങ്ങൾ പറഞ്ഞതുപോലെ നിങ്ങൾ ഒരു ഓർഗനൈസേഷനിൽ ജോലിചെയ്യുമ്പോൾ ആദ്യത്തെത് എല്ലാ എഞ്ചിനീയറിംഗ് പ്രവർത്തനങ്ങളും ഗ്രൂപ്പ് പ്രവർത്തനങ്ങളാണെന്ന് ആ പരിധി വരെ ചിലപ്പോൾ ഒരു പ്രത്യേക പ്രവർത്തനത്തെ ആശ്രയിച്ച് നിങ്ങൾ ഒരു ടീമിലെ അംഗമാണ് അല്ലെങ്കിൽ ചിലപ്പോൾ നിങ്ങൾ ഒരു ചെറിയ ടീമിന്റെ നേതാവാണ് അതിനാൽ രണ്ട് രീതികളിലും നിങ്ങൾ ഫലപ്രദമായി പ്രവർത്തിക്കണം ഈ പ്രവർത്തനങ്ങൾ കാലാകാലങ്ങളിൽ മാറാം അതിനാൽ നിങ്ങൾ വ്യത്യസ്ത ടീമുകളിൽ പ്രവർത്തിക്കുന്നു എന്നാൽ ഒരു ഓർഗനൈസേഷനിൽ ആയിരിക്കുമ്പോൾ രണ്ടാം ഭാഗം പൊതുവായി പറയുകയാണെങ്കിൽ ഒരു മൾട്ടി ഡിസിപ്ലിനറി പ്രവർത്തനം നിങ്ങൾ നോക്കുന്ന ഏതെങ്കിലും ഉൽപ്പന്നം അല്ലെങ്കിൽ സിസ്റ്റം ആയിരിക്കും എന്നാൽ 4 വർഷത്തിനുള്ളിൽ ഒരു ബിരുദ പ്രോഗ്രാമിൽ അത്തരം മൾട്ടിഡിസിപ്ലിനറി ക്രമീകരണങ്ങൾ സൃഷ്ടിക്കുന്നത് ബുദ്ധിമുട്ടാണ് പക്ഷേ അത് ശ്രമിക്കാം ഇത് സാധ്യമാണ് പക്ഷേ ബിരുദ എഞ്ചിനീയറിംഗ് പ്രോഗ്രാമിന്റെ ഒരു പ്രധാന സവിശേഷതയാണെന്ന് സംബന്ധപ്പെട്ടിരിക്കുന്ന എല്ലാ ആളുകളും വിശ്വസിക്കുന്നു ഇപ്പോൾ ഒരു വ്യക്തി ഒരു ടീമിൽ അംഗമായതിനുശേഷം അയാളുടെ പങ്ക് തിരിച്ചറിയുന്നു അവന്റെ അല്ലെങ്കിൽ അവളുടെ പങ്ക് തിരിച്ചറിയുന്നു അവന് ടീമിൽ പ്രവർത്തിക്കാൻ കഴിയണം പങ്ക് തിരിച്ചറിഞ്ഞിട്ടുണ്ടെങ്കിൽ മറ്റ് ടീം അംഗങ്ങളുമായുള്ള വ്യക്തിപരമായ അഭിപ്രായ വ്യത്യാസങ്ങൾക്കിടയിലും ടീമിന്റെ ലക്ഷ്യങ്ങൾ കൈവരിക്കുന്നതിന് ഫലപ്രദമായി പ്രവർത്തിക്കാൻ അദ്ദേഹത്തിന് കഴിയണം അതാണ് ഏറ്റവും ബുദ്ധിമുട്ടുള്ള കാര്യങ്ങളിൽ ഒന്ന് ചില ആളുകൾ പഠിക്കുകയും വേഗത്തിൽ പഠിക്കുന്നവർ ഉയർച്ചയിലേക്ക് നീങ്ങുകയും ചെയ്യും നിരസിക്കുന്നവർ എല്ലായ്പ്പോഴും തെറ്റ് മറ്റേയാളുടെ പക്കലുണ്ടെന്ന് പറയുന്നു അവർ അതിന് വലിയ വില നൽകും ശരി ഒരു ടീമിൽ പ്രവർത്തിക്കാനുള്ള ഈ പ്രത്യേക കഴിവിനെ ഒരു എഞ്ചിനീയറുടെ വളരെ പ്രധാനപ്പെട്ട സ്വഭാവമായി വ്യവസായം കണക്കാക്കുന്നു എന്നാൽ ഒരു ടീമിൽ പ്രവർത്തിക്കാനുള്ള വ്യക്തിയുടെ കഴിവ് ഞങ്ങൾ എങ്ങനെ കണക്കാക്കും ഒരു ടീം അംഗം എത്ര കഴിവുള്ളവനാണെന്ന് അളക്കുന്നതിനും മൂല്യനിർണ്ണയ ഗണ്യം കണക്കാക്കുന്നതിനും റൂബ്രിക്സ് വികസിപ്പിക്കേണ്ടത് ആവശ്യമാണ് മൂല്യനിർണ്ണയ ഗണ്യം എന്നാൽ എന്താണ് നിങ്ങൾക്കൊരു റൂബ്രിക് ലഭിച്ചുകഴിഞ്ഞാൽ അയാൾ നേടുന്ന മാർക്കുകൾ അവസാനം അത്തരം അഭ്യാസമുള്ള കോഴ്സിൽ അയാൾ നേടുന്ന ഗ്രേഡിലേക്ക് ചേർക്കും അവൻ ഒരു നല്ല ടീം അംഗമാണ് അത്ര നല്ല ടീം അംഗമല്ല എന്ന് ഞങ്ങൾ അളക്കുമെന്ന് നിങ്ങൾക്ക് പ്രഖ്യാപിക്കാൻ കഴിയില്ല ഇത് മറക്കുക ഗ്രേഡിന് ഈ കഴിവുമായി ഒരു ബന്ധവുമില്ല അപ്പോൾ മാത്രമേ എല്ലാ വിദ്യാർത്ഥികളും ഇത് ഗൌരവമായി എടുക്കുകയുള്ളൂ സാങ്കേതിക അർദ്ധ സാങ്കേതിക സാങ്കേതികേതര ടീമുകളിലെ അംഗങ്ങൾ അല്ലെങ്കിൽ നേതാക്കൾ എന്ന നിലയിൽ വിദ്യാർത്ഥികൾക്ക് അനുഭവങ്ങൾ നൽകണം ബിരുദ പ്രോഗ്രാമുകളിൽ സെമി ടെക്നിക്കൽ നോൺ ടെക്നിക്കൽ ടീമുകൾ പ്രൊഫഷണൽ സൊസൈറ്റികൾ അല്ലെങ്കിൽ പാഠ്യേതര പ്രവർത്തനങ്ങൾ ഉത്സവങ്ങൾ എന്നിവ പോലുള്ളവയിൽ പലതവണ ഉണ്ടാവുന്നു അവ ഓർഗനൈസ് ചെയ്യുമ്പോഴെല്ലാം അത് എല്ലായ്പ്പോഴും ഒരു കൂട്ടം ആളുകളാണ് ചെയ്യുന്നത് എന്നാൽ തിരഞ്ഞെടുത്ത താൽപ്പര്യമുള്ള ചില ആളുകൾ മാത്രമേ പങ്കെടുക്കൂ എല്ലാ വിദ്യാർത്ഥികൾക്കും ഈ അനുഭവങ്ങൾ ലഭിക്കാൻ സാധ്യതയില്ല അതിനാൽ 4 വർഷത്തെ കാലയളവിൽ ഓരോ വിദ്യാർത്ഥിയും അത്തരം ടീമുകളുടെ ഭാഗം കണ്ടെത്തുന്ന പ്രവർത്തനങ്ങൾ ഒരു വകുപ്പ് ആസൂത്രണം ചെയ്യണം ടീമുകളിൽ അംഗമാകുന്നതിന് വിദ്യാർത്ഥികൾക്ക് പരിശീലനം നൽകുന്നതിനുള്ള ക്രമീകരണം നടത്തുന്നത് മൂല്യവത്താണ് അത്തരം കോച്ചിംഗ് ലഭ്യമാണ് കാരണം വിവിധ സംഘടനകളിലെ എച്ച്ആർ ആളുകൾ ഫലപ്രദമായ ടീം അംഗങ്ങളാകാൻ ആളുകളെ പരിശീലിപ്പിക്കുന്നു എല്ലാ വിദ്യാർത്ഥികൾക്കായും അത്തരം കോച്ചിംഗ് സംഘടിപ്പിക്കാൻ കഴിയും എന്താണ് പ്രവർത്തനങ്ങൾ ഗ്രൂപ്പ് തീരുമാനമെടുക്കൽ ചർച്ചകളിലൂടെ ജോലിയുടെ വിഭജനം എന്നിവ ഉൾപ്പെടുന്ന ഗ്രൂപ്പ് അസൈൻമെന്റുകൾ ഇത് ആകാം ഗ്രൂപ്പ് അസൈൻമെന്റ് കർശനമായി സാങ്കേതികമായിരിക്കാം എന്നിട്ടും അവർ ഒരു ടീമായി പ്രവർത്തിക്കണം ഗ്രൂപ്പ് അസൈൻമെന്റുകളേക്കാൾ അല്പം വലുപ്പമുള്ള ഗ്രൂപ്പ് പ്രോജക്റ്റുകൾ ഒരു മാസം അല്ലെങ്കിൽ രണ്ട് മാസം പ്രവർത്തനത്തിന് തുല്യമായേക്കാം ഒരു ഗ്രൂപ്പ് ആവശ്യമായ കോ കരിക്കുലർ പ്രവർത്തനങ്ങൾ ഇ ഗ്രൂപ്പുകളിലൂടെയുള്ള പ്രവർത്തനങ്ങൾ ഇൻറർനെറ്റിലൂടെ ഗ്രൂപ്പുകൾ രൂപപ്പെടുന്നിടത്ത് വൈകി വരുന്ന ഒരു പുതിയ മാനമാണിത് അവർ മുഖാമുഖം പ്രവർത്തിക്കുന്നില്ല ഇന്നത്തെ എഞ്ചിനീയർമാർ ദൈനംദിന അടിസ്ഥാനത്തിലല്ലാതെ ആളുകളുമായി പ്രവർത്തിക്കാൻ പഠിക്കേണ്ടതുണ്ട് നിങ്ങൾ മേശയുടെ അങ്ങേപ്പുറം ഇരുന്ന് കണ്ടുമുട്ടുന്നില്ല നിങ്ങൾ ഇന്റർനെറ്റിലൂടെ മാത്രം ഇടപഴകുന്നു ഇപ്പോൾ പിഒ10 ആശയവിനിമയമാണ് മുമ്പത്തെ പിഒ9 പോലെ ഒരു ടീമിൽ പ്രവർത്തിക്കാനുള്ള കഴിവ് ആശയവിനിമയത്തെ വ്യവസായവും വളരെ നിർണായകമായി കണക്കാക്കുന്നു ഇത് വളരെ അത്യാവശ്യമായ ഒരു കഴിവാണ് സങ്കീർണ്ണമായ എഞ്ചിനീയറിംഗ് പ്രവർത്തനങ്ങളെക്കുറിച്ച് എഞ്ചിനീയറിംഗ് കമ്മ്യൂണിറ്റിയുമായും സമൂഹവുമായും ഫലപ്രദമായി ആശയവിനിമയം നടത്തുക ഫലപ്രദമായ റിപ്പോർട്ടുകൾ മനസിലാക്കാനും എഴുതാനും ഡോക്യുമെന്റേഷൻ രൂപകൽപ്പന ചെയ്യാനും ഫലപ്രദമായ അവതരണങ്ങൾ നടത്താനും വ്യക്തമായ നിർദ്ദേശങ്ങൾ നൽകാനും സ്വീകരിക്കാനും കഴിയും നിങ്ങൾക്ക് കാണാനാകുന്നതുപോലെ ഇത് വളരെ വിശദമായി എഴുതിയിരിക്കുന്നു ഇതിൽ നിരവധി കാര്യങ്ങളുണ്ട് എഞ്ചിനീയറിംഗ് കമ്മ്യൂണിറ്റിയുമായി ഫലപ്രദമായി ആശയവിനിമയം നടത്താൻ നിങ്ങൾക്ക് കഴിയണം അതിനർത്ഥം നിങ്ങൾ ആശയവിനിമയം നടത്താൻ ഉപയോഗിക്കുന്ന ഭാഷ മറ്റേയാൾക്ക് അറിയാം ഒരു ഗ്രൂപ്പിലെ ഒരു പ്രോജക്റ്റിൽ നിങ്ങൾ ഒരു ഗ്രൂപ്പായി പ്രവർത്തിക്കുകയാണെങ്കിൽ ആശയവിനിമയം നടത്താൻ നിങ്ങൾ ഉപയോഗിക്കുന്ന ചുരുക്കരൂപങ്ങൾ ഗ്രൂപ്പിലെ എല്ലാ വ്യക്തികൾക്കും അറിയാം അത് സമന്മാരുമായി ആശയവിനിമയം നടത്തുകയാണ് ചില സമയങ്ങളിൽ നിങ്ങൾ സമൂഹവുമായി വലിയ തോതിൽ ആശയവിനിമയം നടത്തേണ്ടതുണ്ട് സമൂഹം എന്നത് നിങ്ങളുടെ സാങ്കേതിക ഭാഷയെ ഒരേ ചുരുക്കത്തിൽ ഒരേ രീതിയിൽ സംസാരിക്കാത്ത ആളുകളെ അർത്ഥമാക്കും ഇത് ഒരു ഉപഭോക്താവാകാം അല്ലെങ്കിൽ സാക്ഷരരായ ഒരു കൂട്ടം പൊതു വ്യക്തികളാകാം പക്ഷേ അവർക്ക് ഈ നിർദ്ദിഷ്ട സാങ്കേതിക ഭാഷ അറിയില്ല നിങ്ങളുടെ ഗ്രൂപ്പ് കൃത്യമായി എന്താണ് ചെയ്യുന്നതെന്ന് അവരുമായി ആശയവിനിമയം നടത്താൻ ഒരാൾക്ക് കഴിയണം ഇതാണ് ഇവ രണ്ടും അത് സമന്മാരുമായി ആശയവിനിമയം നടത്തുകയും സമൂഹവുമായി വലിയ തോതിൽ ആശയവിനിമയം നടത്തുകയുമാണ് അതിനുമുപരി നിങ്ങൾക്ക് ഫലപ്രദമായ റിപ്പോർട്ടുകൾ എഴുതാൻ കഴിയണം നിങ്ങൾക്കെന്തെങ്കിലും എഴുതണമെങ്കിൽ നിങ്ങൾക്ക് ഡിസൈൻ ഡോക്യുമെന്റേഷനുകൾ ഉൾക്കൊള്ളുന്ന സാങ്കേതിക റിപ്പോർട്ടുകൾ എഴുതാനും അല്ലെങ്കിൽ ഫലപ്രദമായ അവതരണങ്ങൾ നടത്താനും കഴിയണം അതായത് നിങ്ങൾ റിപ്പോർട്ടുകളും ഡിസൈൻ ഡോക്യുമെന്റേഷനും എഴുതുക മാത്രമല്ല നിങ്ങളുടെ ഉപയോക്താക്കൾക്ക് അല്ലെങ്കിൽ നിങ്ങളുടെ സ്വന്തം ഗ്രൂപ്പിനുള്ളിൽ ഫലപ്രദമായ അവതരണങ്ങൾ നടത്തുകയും വേണം ഉദാഹരണത്തിന് ആ ആഴ്ചയിൽ നിങ്ങൾ കൃത്യമായി ചെയ്തതെന്താണെന്ന് ഗ്രൂപ്പിലേക്ക് ഓരോ ആഴ്ചയും 5 മിനിറ്റ് അവതരണം നടത്താൻ നിങ്ങളോട് ആവശ്യപ്പെടുകയാണെങ്കിൽ അനുബന്ധ സാങ്കേതിക അവതരണം നടത്താൻ നിങ്ങൾക്ക് കഴിയണം ഈ ദിവസങ്ങളിൽ ഇത് പ്രധാനമായും പവർപോയിന്റ് അവതരണങ്ങളിലൂടെയാണ് അവ ലളിതവും വ്യക്തവുമായിരിക്കണം വ്യക്തമായ നിർദ്ദേശങ്ങൾ നൽകാനും സ്വീകരിക്കാനും നിങ്ങൾക്ക് കഴിയണം ഇത് ഒരു തരത്തിൽ ഇന്ത്യക്കാരെന്ന നിലയിൽ ഞങ്ങൾക്ക് ഈ പ്രത്യേക വൈദഗ്ദ്ധ്യം ഇല്ലെന്ന് ഞാൻ മനസ്സിലാക്കുന്നു ഞങ്ങൾ വ്യക്തമായി നിർദ്ദേശങ്ങൾ നൽകുകയോ വ്യക്തമായ നിർദ്ദേശങ്ങൾ സ്വീകരിക്കുകയോ ചെയ്യുന്നില്ല വ്യക്തമായ നിർദ്ദേശങ്ങൾ സ്വീകരിക്കുക എന്നതിനർത്ഥം ഒരു വിധത്തിൽ ഇന്ത്യക്കാർ ഒരു മെനു കാർഡ് മോഡിൽ പ്രവർത്തിക്കുന്നതായി തോന്നുന്നു അതാണ് ഒരു മെനു കാർഡ് നൽകിയിരിക്കുന്നത് തുടർന്ന് നിങ്ങൾ ആഗ്രഹിക്കുന്നത് തിരഞ്ഞെടുക്കുക അതുപോലെ തന്നെ നിർദ്ദേശങ്ങൾ നൽകുകയും അതിൽ നിങ്ങൾക്കിഷ്ടമുള്ളത് നടപ്പിലാക്കുകയും ചെയ്യുന്നു എഞ്ചിനീയർക്ക് പ്രവർത്തിക്കേണ്ട രീതി അതല്ല ശരി അതിനാൽ ഈ പിഒയിലേക്ക് ഇതിന് നിരവധി മാനങ്ങളുണ്ട് അതിനുപുറമെ ഇന്ത്യയിലെ എല്ലാ ഔദ്യോഗിക പ്രൊഫഷണൽ എഞ്ചിനീയറിംഗ് പ്രവർത്തനങ്ങളും ഇംഗ്ലീഷിലാണ് നടത്തുന്നത് ഇംഗ്ലീഷ് നമ്മുടെ ആരുടെയും മാതൃഭാഷയല്ല അത്രത്തോളം ഒരാൾക്ക് റിപ്പോർട്ടുകളുടെയും അവതരണങ്ങളുടെയും എഴുത്തിന് മതിയായ വൈദഗ്ദ്ധ്യം നേടേണ്ടതുണ്ട് നിരവധി കോളേജുകളിലും ഇപ്പോൾ അവർക്ക് ഇംഗ്ലീഷ് പ്രൊഫഷണൽ കമ്മ്യൂണിക്കേഷൻ എന്നിവയിൽ ഒരു കോഴ്സ് ഉണ്ട് തൊഴിൽപരമായി എഴുതുന്നതിനാണ് കൂടുതൽ ഊന്നൽ നൽകേണ്ടത് കൃത്യത സാങ്കേതിക കൃത്യത എഴുതാനുള്ള കഴിവുകൾ എന്നിവയുമായി ബന്ധപ്പെട്ട ഘടകങ്ങളുള്ള മൂല്യനിർണ്ണയ റൂബ്രിക്സുള്ള നിരവധി കോഴ്സുകളിൽ നിരവധി എഴുത്ത് അഭ്യാസങ്ങൾ ഉൾപ്പെടുത്തണം നിങ്ങൾക്ക് കുറച്ച് റൂബ്രിക്സുകൾ ഉണ്ടായിരിക്കുകയും അതിന് മാർക്ക് നൽകുകയും വേണം ഇത് നിങ്ങളുടെ ഗ്രേഡിലേക്ക് പ്രതിഫലിക്കും പ്രോജക്റ്റ് റിപ്പോർട്ടുകൾ വിലയിരുത്തുന്നതിന് സമാനമായ സാങ്കേതിക എഴുത്തിന് മതിയായ വെയിറ്റേജ് നൽകണം അതിനാൽ സാങ്കേതിക പ്രവർത്തന റിപ്പോർട്ടുകൾ എഴുതുകയും പ്രഖ്യാപിത റൂബ്രിക്സുകൾ അനുസരിച്ച് വിലയിരുത്തുകയും ചെയ്യുന്നതുപോലുള്ള നിരവധി പ്രവർത്തനങ്ങളുണ്ട് സമന്മാർക്കും സാധാരണക്കാർക്കും വേണ്ടി പ്രഖ്യാപിത റൂബ്രിക്സുകൾ അനുസരിച്ച് വിലയിരുത്തപ്പെടുന്ന ഹ്രസ്വഅവതരണങ്ങൾ നടത്തുക ഹ്രസ്വ അവതരണങ്ങൾ നടത്തുന്നത് നിരവധി കോളേജുകൾ പരിശീലിക്കുന്ന കാര്യമാണിത് അവതരിപ്പിച്ച പ്രവർത്തനത്തെക്കുറിച്ച് ഫീഡ്ബാക്ക് നൽകുക അത് പ്രവർത്തനക്ഷമമാക്കാം അവതരിപ്പിച്ച പ്രവർത്തനത്തെക്കുറിച്ച് നൽകിയ ഫീഡ്ബാക്ക് രേഖപ്പെടുത്തുക ലക്ഷ്യങ്ങൾ നിറവേറ്റുന്നതിന് ഗ്രൂപ്പ് അംഗങ്ങളെ പ്രോത്സാഹിപ്പിക്കുകയും പിന്തുണയ്ക്കുകയും ചെയ്യുക ഇവിടെ നിങ്ങൾ വീണ്ടും ഗ്രൂപ്പ് അംഗങ്ങളെ എങ്ങനെയാണ് പിന്തുണയ്ക്കുന്നത് അതിന് ഗ്രൂപ്പ് അംഗങ്ങൾ തമ്മിൽ മതിയായ ആശയവിനിമയം ആവശ്യമാണ് ശരിയായ ആശയവിനിമയം പ്രോജക്ട് മാനേജുമെന്റും ധനകാര്യവുമായി ബന്ധപ്പെട്ട പിഒ11 ലേക്ക് ഇപ്പോൾ വരുന്നു ഇത് എന്താണ് പറയുന്നത് എഞ്ചിനീയറിംഗ് മാനേജുമെന്റ് തത്ത്വങ്ങളെക്കുറിച്ചുള്ള അറിവും ധാരണയും പ്രകടിപ്പിക്കുകയും പ്രോജക്റ്റുകൾ കൈകാര്യം ചെയ്യുന്നതിനുള്ള ഒരു ടീമിലെ ഒരു അംഗം നേതാവ് എന്നീ നിലകളിലും മൾട്ടി ഡിസിപ്ലിനറി പരിതസ്ഥിതികളിലും ഇവ സ്വന്തം സൃഷ്ടികളിൽ പ്രയോഗിക്കുകയും ചെയ്യുക ഇത് ചെയ്യാൻ പ്രയാസമുള്ള ഒരു കാര്യമാണ് ഒന്നാമതായി എഞ്ചിനീയറിംഗ് പ്രവർത്തനങ്ങൾ മിക്കതും നിങ്ങൾ നോക്കുകയാണെങ്കിൽ അവ പ്രോജക്ട് മോഡിലാണ് നടത്തുന്നത് എന്താണ് പ്രോജക്റ്റ് മോഡ് എന്തെങ്കിലും പൂർത്തിയാക്കേണ്ടതിന് സമയപരിധിയുണ്ട് തിരിച്ചറിഞ്ഞ സാമ്പത്തിക മാനവ വിഭവശേഷി ഉണ്ട് അതിനുള്ളിൽ അത് പൂർത്തീകരിക്കേണ്ടതുണ്ട് എന്താണ് സംഭവിക്കുകയെന്നത് അതിന് ഒരു ഘട്ടത്തിൽ നിന്ന് മറ്റൊന്നിലേക്ക് ഒരു പദ്ധതി ഉണ്ടായിരിക്കണം എന്താണ് നാഴികക്കല്ലുകൾ ഞങ്ങൾ അതിനു സമീപത്താണോ എന്ന് എങ്ങനെ വിലയിരുത്താം പിന്നെ വ്യതിചലനങ്ങളുണ്ടെങ്കിൽ നമുക്ക് എങ്ങനെ ചെയ്യാനാകും നമുക്ക് എങ്ങനെ കഴിയും അതിന് കൃത്യമായി എന്താണ് ചെയ്യേണ്ടത് ഉദാഹരണത്തിന് നിരീക്ഷിക്കാൻ പോലും മതിയായ ഉപകരണങ്ങൾ ലഭ്യമാണോ നിങ്ങൾ പ്രോജക്റ്റ് മോഡിൽ പ്രവർത്തിക്കുമ്പോൾ ഉണ്ടാകുന്ന എല്ലാ ആശങ്കകളും ഇവയാണ് ഒരു പ്രോജക്റ്റ് മൾട്ടി ഡിസിപ്ലിനറി പ്രകൃതം ആകാം നിങ്ങൾ ഒരു ഉൽപ്പന്നം വികസിപ്പിക്കുമ്പോൾ മെക്കാനിക്കൽ അളവ് നിർമ്മാണ അളവ് ഇലക്ട്രോണിക്സ് അളവ് തുടങ്ങിയവ ഉണ്ടാകാം അത്തരമൊരു പ്രോജക്റ്റിൽ ഒന്നിലധികം ടീമുകൾ പ്രവർത്തിക്കുമ്പോൾ അത് മൾട്ടി ഡിസിപ്ലിനറി സ്വഭാവമായി മാറുന്നു കൂടാതെ എഞ്ചിനീയറിംഗ് മാനേജ്മെൻറ് അല്ലെങ്കിൽ പ്രോജക്ട് മാനേജ്മെൻറിനെക്കുറിച്ചുള്ള ഒരു കോഴ്സിലൂടെ ഈ പ്രത്യേക പിഒയെ അഭിസംബോധന ചെയ്യാൻ കഴിയും കോഴ്സുകൾ ലഭ്യമാണ് അത് ഉൾപ്പെടുത്താനും നന്നായി ഓർഗനൈസു ചെയ്ത മിനി പ്രധാന പ്രോജക്ടുകൾ വഴിയും ഇത് പരിഹരിക്കാനാകും മൂല്യനിർണ്ണയത്തിന്റെ നിബന്ധനകൾ പ്രോജക്റ്റ് മാനേജ്മെന്റിനെക്കുറിച്ചും ചെലവ് കണക്കാക്കുന്നതിനെക്കുറിച്ചും വിദ്യാർത്ഥിയുടെ ധാരണയെ പ്രതിഫലിപ്പിക്കണം അതിനാൽ ഇതിലൂടെ ഞങ്ങൾ പദ്ധതിയിൽ തന്നെ വളരെയധികം ഭാരം കൊണ്ടുവരുന്നു കൂടാതെ പിഒ11 പ്രവർത്തനങ്ങൾ എഞ്ചിനീയറിംഗ് മാനേജ്മെൻറ് അല്ലെങ്കിൽ പ്രോജക്റ്റ് മാനേജ്മെന്റിനെക്കുറിച്ചുള്ള ഒരു കോഴ്സിന് ക്രെഡിറ്റ് ചെയ്യുക മിനി പ്രധാന പ്രോജക്ടുകൾ നന്നായി ഓർക്കുക ഒരു പ്രോജക്റ്റ് നടപ്പിലാക്കാൻ ആവശ്യമായ സമയവും സാമ്പത്തിക സ്രോതസ്സുകളും നിർണ്ണയിക്കുക ഒരു ഓർഗനൈസേഷന്റെ ബാലൻസ് ഷീറ്റിൽ നിന്ന് അതിന്റെ പ്രകടനം വിശകലനം ചെയ്യുക അതും പിഒ11 നെ അഭിസംബോധന ചെയ്യുന്നതിന്റെ ഭാഗമാകാം PO12 ലേക്ക് വരുന്നു ജീവിതകാലം മുഴുവൻ പഠനം പ്രസ്താവന എന്താണ് പറയുന്നത് സാങ്കേതിക മാറ്റത്തിന്റെ വിശാലമായ പശ്ചാത്തലത്തിൽ ഞങ്ങൾ അതിനെ വിളിക്കുമ്പോൾ സ്വതന്ത്രവും ആജീവനാന്തവുമായ പഠനത്തിന്റെ Life Long Learning ആവശ്യകത തിരിച്ചറിയുകയും സജ്ജമാക്കുകയും ചെയ്യുക ഇപ്പോൾ ഇത് പുതിയ കാര്യമല്ല കഴിഞ്ഞ രണ്ടോ മൂന്നോ ദശകങ്ങളിൽ നമുക്കറിയാവുന്നതുപോലെ സാങ്കേതികവിദ്യയുടെ മാറ്റത്തിന്റെ നിരക്ക് വളരെ പ്രാധാന്യമർഹിക്കുന്നതാണ് ഇന്ന് നിങ്ങൾക്കറിയാവുന്ന കാര്യങ്ങൾ രണ്ടോ മൂന്നോ വർഷത്തിനുള്ളിൽ കാലഹരണപ്പെട്ടേക്കാം ചിലപ്പോൾ അപ്രസക്തവുമാകും അറിവ് അപ്രസക്തമാണ് അതിനാൽ നിങ്ങൾക്ക് സ്വന്തമായി പ്രവർത്തിക്കുന്നതിന് പ്രൊഫഷണൽ പിരീഡ് 30 35 വർഷം പോലുള്ള കരിയർ പിരീഡൽ നിങ്ങളുടെ വിജ്ഞാന അടിത്തറ പലതവണ പരിശോധിക്കേണ്ടതുണ്ട് അതിനാൽ ആവശ്യമായ ഒരു പ്രധാന വൈദഗ്ദ്ധ്യം ഏതൊരു എഞ്ചിനീയർക്കും ഔപചാരിക വിദ്യാഭ്യാസത്തിന്റെ അവസാനത്തിനപ്പുറം സ്വയം വിദ്യാഭ്യാസം തുടരാനുള്ള കഴിവ് ഉണ്ടായിരിക്കണം നിങ്ങളുടെ അവസാന വർഷ പരീക്ഷ എഴുതുമ്പോൾ നിങ്ങളുടെ പഠനം യഥാർത്ഥത്തിൽ അവസാനിക്കുന്നില്ല അത് ആ സമയത്ത് ആരംഭിക്കുന്നു ബിരുദദാന സമയത്ത് ആവശ്യമായ അറിവും നൈപുണ്യവും ഉപയോഗിച്ച് ഒരാളുടെ കരിയറിൽ മുന്നേറാൻ കഴിയില്ല ഞങ്ങൾ ഇതിനകം പറഞ്ഞതുപോലെ അത് വളരെ വ്യക്തമാണ് സ്വയം പഠിക്കുന്നത് തുടരാൻ വിദ്യാർത്ഥികളെ പ്രചോദിപ്പിക്കുകയും സജ്ജരാക്കുകയും ചെയ്യണമെങ്കിൽ അവരുടെ ഔപചാരിക വിദ്യാഭ്യാസം മുൻകൂട്ടി നിശ്ചയിച്ച ഉള്ളടക്കത്തിന്റെ അവതരണത്തിനപ്പുറത്തേക്ക് പോകണം ഇപ്പോൾ പ്രബലമായി ഞങ്ങൾക്ക് മുൻകൂട്ടി നിശ്ചയിച്ച ഉള്ളടക്കമുണ്ട് ഞങ്ങളുടെ പരിശോധനകൾ പൂർത്തിയായി അല്ലെങ്കിൽ മുഴുവൻ വിലയിരുത്തലുകളും മുൻകൂട്ടി നിശ്ചയിച്ച ഉള്ളടക്കത്തിന്റെ ഈ അവതരണത്തെ അടിസ്ഥാനമാക്കിയുള്ളതാണ് അവിടെയാണ് പ്രശ്നം വരുന്നത് അതിനാൽ നിങ്ങളുടെ വിലയിരുത്തലിൽ മുൻകൂട്ടി നിശ്ചയിച്ച ഉള്ളടക്കത്തിന് അതീതമായി എന്തെങ്കിലും ഉൾപ്പെടുത്തണം ജീവിതകാലം മുഴുവൻ പഠിക്കുന്നതിനെ പ്രോത്സാഹിപ്പിക്കുന്ന പ്രവർത്തനങ്ങൾ വിദ്യാർത്ഥികൾക്ക് അവരുടെ സ്വന്തം പഠന പ്രക്രിയ മനസ്സിലാക്കാൻ സഹായിക്കുന്നു ഞങ്ങളുടെ അനുഭവത്തിൽ ഇത് പ്രത്യേകിച്ചും ചില പ്രാദേശിക അല്ലെങ്കിൽ തദ്ദേശ പ്രദേശങ്ങളിൽ നിങ്ങൾ ഇതിനെ ടയർ 2 അല്ലെങ്കിൽ ടയർ 3 സ്ഥാപനങ്ങൾ എന്ന് വിളിക്കുന്നവയുടെ പ്രശ്നങ്ങളിലൊന്ന് അവരുടെ സ്വന്തം പഠന പ്രക്രിയകളെക്കുറിച്ചുള്ള അവരുടെ ഗ്രാഹ്യം ശ്രദ്ധ ആവശ്യപ്പെടുന്ന കാര്യങ്ങളെ ഗൌരവമായി കാണും ഇത് നാം മെറ്റാകോഗ്നിറ്റീവ് അറിവ് എന്ന് വിളിക്കുന്നതിനെ അഭിസംബോധന ചെയ്യാൻ പോകുന്നു അതായത് ഒരാൾക്ക് എത്രമാത്രം അറിയാമെന്നും എത്രമാത്രം പഠിക്കണമെന്നും അറിയണം ആ അറിവ് അദ്ദേഹത്തിന് മുന്നിൽ അവതരിപ്പിക്കേണ്ടതുണ്ട് ശരി അതിനാൽ നിരവധി അഭ്യാസങ്ങളുണ്ട് അത് വിദ്യാർത്ഥികളെ അവരുടെ പഠന പ്രക്രിയ മനസ്സിലാക്കാൻ സഹായിക്കും കൂടാതെ വിദ്യാർത്ഥി അവരുടെ പഠനത്തിന്റെ ഉത്തരവാദിത്വവും ഏറ്റെടുക്കണം വിജയിക്കാനുള്ള വിദ്യാർത്ഥിയുടെ കഴിവിൽ ആത്മവിശ്വാസം വളർത്തുന്ന അന്തരീക്ഷം സൃഷ്ടിക്കുക പഠിപ്പിക്കലും വിദ്യാഭ്യാസവും അവരുടെ താൽപ്പര്യങ്ങളും ലക്ഷ്യങ്ങളും വ്യക്തിപരമായി പ്രസക്തമാണെന്ന് കാണാൻ വിദ്യാർത്ഥികളെ സഹായിക്കുന്നു ഈ കാര്യങ്ങൾ പ്രബോധനത്തിൽ പ്രതിഫലിപ്പിക്കേണ്ടതുണ്ട് അധ്യാപകർ കൈകാര്യം ചെയ്യുന്ന രീതിയും നിർദ്ദേശവും ഞങ്ങളുടെ മൂന്നാമത്തെ മൊഡ്യൂളായിരിക്കും അവിടെ കൂടുതൽ വിശദമായ പരിഗണനകൾക്കായി ഈ പ്രവർത്തനങ്ങൾ ഏറ്റെടുക്കും സ്വയം പഠനത്തെ പ്രോത്സാഹിപ്പിക്കുന്ന പ്രവർത്തനങ്ങൾ നിരവധി കോർ കോഴ്സുകളിൽ ഉൾപ്പെടുത്താം ഈ ഫലത്തിന്റെ നേട്ടം അളക്കുന്നതിന് റൂബ്രിക്സ് വികസിപ്പിക്കേണ്ടതുണ്ട് ശരി അവ ഇങ്ങനെ ആകാം നിങ്ങൾക്ക് നിങ്ങളുടെ അസൈൻമെൻറ് അല്ലെങ്കിൽ മുൻനിശ്ചയിച്ച ഉള്ളടക്കത്തിനപ്പുറമുള്ള ഒരു വായനാ അഭ്യാസം ഉൾപ്പെടുത്താൻ കഴിയും തുടർന്ന് അവൻ എത്രത്തോളം ചെയ്തുവെന്ന് അളക്കാൻ നിങ്ങൾക്ക് റൂബ്രിക്സ് ഉണ്ടായിരിക്കാം എല്ലാ തരത്തിലുമുള്ള പ്രോജക്ടുകളും സാധാരണയായി സ്വയം പഠനത്തെ പ്രോത്സാഹിപ്പിക്കുന്നു എല്ലാത്തരം പ്രോജക്ടുകളും പൊതുവെ സ്വയം പഠനത്തെ പ്രോത്സാഹിപ്പിക്കുന്നു പക്ഷേ അളക്കുന്നതിന് ഉചിതമായ റൂബ്രിക്സുകൾ ആവശ്യമാണ് അതിനാൽ ഒരു പ്രോജക്റ്റിന്റെ തുടക്കത്തിൽ ആവശ്യമായ അറിവും നൈപുണ്യവും നിർണ്ണയിക്കൽ പിഒ12 ന്റെ പ്രവർത്തനങ്ങളിൽ ഉൾപ്പെടുന്നു ഒരു റിപ്പോർട്ട് എഴുതുകയോ അല്ലെങ്കിൽ ഒരു ഉൽപ്പന്നമോ പ്രക്രിയയോ വികസിപ്പിക്കുകയോ ചെയ്യുക ആവശ്യമായ അറിവും നൈപുണ്യവും നേടുന്നതിനുള്ള തന്ത്രങ്ങൾ വികസിപ്പിക്കുക അതിനാൽ ഒരു പ്രോജക്റ്റിൽ പ്രവർത്തിക്കുമ്പോൾ അദ്ദേഹം പിന്തുടരാൻ പോകുന്ന തന്ത്രമെന്താണെന്ന് നിങ്ങൾക്ക് ചോദിക്കാം അത് തന്നെ എഴുതുന്നത് വിദ്യാർത്ഥിയുടെ ശ്രദ്ധ കൃത്യമായി അവൻ ചെയ്യേണ്ട കാര്യങ്ങളിലേക്ക് കൊണ്ടുവരും മാത്രമല്ല ആ പ്രത്യേക തന്ത്രം അദ്ദേഹത്തിന് എഴുതാനും കഴിയും ക്ലാസ് റൂമിന് പുറത്ത് ആവശ്യമായ അറിവും നൈപുണ്യവും നേടുക ബോർഡിൽ പ്രശ്നങ്ങൾ പരിഹരിക്കുന്ന അധ്യാപകന്റെ അവതരണം ആശ്രയിക്കരുത് പക്ഷേ ക്ലാസ് റൂമിന് പുറത്ത് എന്തെങ്കിലും പ്രവർത്തിക്കാൻ അദ്ദേഹത്തിന് കഴിയണം പ്രൊഫഷണൽ വികസനം പ്രൊഫഷണൽ സൊസൈറ്റി പ്രവർത്തനങ്ങൾ കോ കരിക്കുലർ പാഠ്യേതര പ്രവർത്തനങ്ങൾ എന്നിവയിൽ പങ്കെടുക്കുക അവയെല്ലാം ആജീവനാന്ത പഠനത്തെ മിക്കവാറും അവയെല്ലാം ആജീവനാന്ത പഠനത്തെ മിക്കവാറും പ്രോത്സാഹിപ്പിക്കുകയും ചെയ്യും ഇപ്പോൾ അസൈൻമെന്റുകളിലേക്ക് വരുന്നു നിങ്ങൾ പഠിപ്പിച്ചതും പഠിച്ചതുമായ കോഴ്സുകളിൽ നിന്ന് ഈ 7 പിഒകളെ അഭിസംബോധന ചെയ്യുന്ന രണ്ട് ഉദാഹരണ പ്രവർത്തനങ്ങൾ നൽകുക അതിനാൽ പ്രോജക്ടുമായി ബന്ധപ്പെടുത്തരുത് നിങ്ങൾ പഠിപ്പിച്ചതോ പഠിച്ചതോ ആയ കോഴ്സുകളിൽ നിന്ന് ചില സാമ്പിൾ പ്രവർത്തനങ്ങൾ നൽകാൻ ശ്രമിക്കുക അത് ശരിക്കും ഒരു വലിയ സംഭാവനയായിരിക്കും മാത്രമല്ല ഇത് ഈ 7 പിഒകൾ നിങ്ങളുടെ ശ്രദ്ധയിൽപ്പെടുത്തുകയും ചെയ്യും അടുത്ത യൂണിറ്റിൽ ഞങ്ങൾ പഠന ടാക്സോണമിയിലേക്ക് പോകും പഠനത്തിന്റെ ടാക്സോണമി മനസിലാക്കുന്നത് അധ്യാപനത്തിനും നിർദേശങ്ങൾക്കും ആസൂത്രണത്തിൽ വലിയ സഹായമായിരിക്കും കാരണം അധ്യാപകർ മറ്റ് അധ്യാപകരുമായി ആശയവിനിമയം നടത്തേണ്ടതുണ്ട് അല്ലെങ്കിൽ വിദ്യാർത്ഥികളുമായി ആശയവിനിമയം നടത്തുകയും ആശയവിനിമയം നടത്താൻ കൃത്യമായ ഭാഷ ആവശ്യമുള്ള പഠന ടാക്സോണമി അത് നൽകുകയും ചെയ്യും കൂടാതെ യൂണിറ്റ് 9 പ്രധാനമായും രണ്ട് വൈജ്ഞാനിക തലങ്ങളിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നു ഓർമ്മിക്കുക മനസിലാക്കുക ശരി അതിനാൽ അടുത്ത യൂണിറ്റിന്റെ ലക്ഷ്യം അതായിരിക്കും നിങ്ങളുടെ ശ്രദ്ധയ്ക്ക് വളരെ നന്ദി